വീണ്ടും സ്വാഗതം സൂപ്പർ നോഡിന്റെ മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം ഡിസി സർക്യൂട്ടിനായി എല്ലാം വിശദമായി വിവരിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ അടിസ്ഥാനകാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം എസി സർക്യൂട്ടിനും മാഗ്നറ്റിക് സർക്യൂട്ട് അല്ലെങ്കിൽ കപ്പിൽ സർക്യൂട്ടിനും പോലും ഇത് ബാധകമാകുമ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് ഏതാണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് സമാനമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതില്ല കാരണം ഈ സമയത്ത് ഈ ആശയങ്ങളെല്ലാം വ്യക്തമാകും അതിനാൽ ഈ സർക്യൂട്ടിന് ഒരുപക്ഷേ കൂടുതൽ സമയം ചിലവഴിച്ചിരിക്കാം കൂടാതെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം സഹായിക്കും ഇപ്പോൾ ഈ ഉദാഹരണം എടുക്കുക ഇത് ഒരു സൂപ്പർ നോഡാണ് കാരണം ഈ വരി ഈ റഫറൻസും അതിന്റെ വോൾട്ടേജും v 0 0 ആണ് ഈ സാഹചര്യത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സയി ഞങ്ങൾ വിളിക്കുന്നത് ഇവിടെ നോഡ് 1 ൽ ബന്ധിപ്പിച്ചിരിക്കുന്നു 5 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ ഈ നോഡിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ ഒരു 5 ആമ്പിയറുകളും മറ്റൊരു 10 ആമ്പിയർ നിലവിലെ ഉറവിടവും നോഡ് 2 ൽ ഉണ്ട് അതിനാൽ ഇതിനർത്ഥം ഈ 10 ആമ്പിയർ കറന്റ് ഈ നോഡ് 2 ഉം ഈ v1ഉം ഉപേക്ഷിക്കുന്നു ഇത് നോഡ് 1 ആണ് ഇത് യഥാർത്ഥത്തിൽ നോഡ് 1 ആണ് ഇത് യഥാർത്ഥത്തിൽ നോഡ് 2 ആണ് ഇവ 2 നോൺ റഫറൻസ് നോഡാണ് v2 1 വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം ഇത് ഒരു സൂപ്പർ നോഡ് രൂപപ്പെടുത്തുന്നു അതിനാൽ ഇതുപോലുള്ള ഒന്ന് കാരണം ഒരു വോൾട്ടേജ് ഉറവിടം ഉണ്ടെങ്കിൽ അത് 1 ആയിരിക്കാം അത് 2 ആകാം പ്രശ്നമില്ല റഫറൻസിനും നോൺ റഫറൻസ് നോഡിനുമിടയിൽ വോൾട്ടേജ് ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സൂപ്പർ നോഡ് സൃഷ്ടിക്കുന്നു നമുക്ക് ചില പ്രശ്നങ്ങൾ ചെയ്യാം v 1 v 2 എന്നിവ കണ്ടെത്താം ഇവിടെ നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ സൂപ്പർ നോഡാണ് അതിനാൽ KCL പ്രയോഗിക്കേണ്ടതിനാൽ വോൾട്ടേജ് സോഴ്സ് ഇല്ല ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ കറന്റ് പ്രവേശിച്ച് പുറപ്പെടുന്ന ഒരു സൂപ്പർ നോഡാണ് ഇത് യഥാർത്ഥത്തിൽ സൂപ്പർ നോഡാണ് കാരണം രണ്ട് 1 വോൾട്ടേജ് സോഴ്സ് രണ്ട് നോൺ റഫറൻസ് നോഡുകൾക്കിടയിൽ ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ 5 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ സൂപ്പർ നോഡിലേക്ക് പ്രവേശിക്കുന്നു ഈ 10 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ ഇത് സൂപ്പർ നോഡിനെ ഉപേക്ഷിക്കുന്നു ഇത് നോഡ് 1 ആണ് ഇതും സൂപ്പർ നോഡിൽ നിന്ന് പുറപ്പെടുന്ന കറന്റ് ആണെന്ന് പറയുക ഇത് നോഡ് 2 ലെ കറന്റുകളാണ് KCL എന്ന സമവാക്യം എഴുതിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ നോഡിൽ KCL പ്രയോഗിക്കുകയാണെങ്കിൽ ഈ 5 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു അതിനാൽ 5 ഈ കറന്റ് സൂപ്പർ നോഡിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ നിലവിലെ i1 i2 10 ആമ്പിയർ എന്നിവയെല്ലാം സൂപ്പർ നോഡിൽ നിന്ന് പുറത്തുപോകുന്നു അതിനാൽ ഈ i1 ഉം സൂപ്പർ നോഡിൽ നിന്ന് പുറത്തുപോകുന്നതിനാൽ i2 ഉം സൂപ്പർ നോഡും 10 ആമ്പിയറും ഉപേക്ഷിക്കുന്നു കാരണം ഇത് 10 ആമ്പിയർ നിലവിലെ സോഴ്സാണ് അതിനാൽ ഇത് സൂപ്പർ നോഡ് ഉപേക്ഷിക്കുന്നു ഇത് താഴേക്ക് കാണിക്കുന്നു ഇത് മുകളിലേക്ക് അതിനാൽ ഇത് പ്രവേശിക്കുന്നു r i1 i2 5 ഇപ്പോൾ എന്താണ് r എന്താണ് r i1 എന്താണ് r i2 i1 കാണുകയാണെങ്കിൽ ഇവിടെ i1 r അടിസ്ഥാനപരമായി v1 0 കാരണം ഇത് റഫറൻസ് ആയ ഒരു നോഡാണ് അത് r റഫറൻസ് നോഡ് v0 0 ആണ് അതിനാൽ i1 v1 0 2 v1 0 2 v1 2 അതായത് r i1 അതുപോലെ ഈ i2 ഉം വോൾട്ടേജ് v2 ആണ് അതിനാൽ റഫറൻസ് നോഡ് അതിനാൽ വോൾട്ടേജ് 0 v2 04 ആണ് കാരണം ഈ റെസിസ്റ്റൻസ് 4 ആണ് അതിനാൽ r i2 v2 4 അതിനർത്ഥം ഇവിടെ i1 v1 2 i2 v2 4 v2 4 5 അതനുസരിച്ച് ഇത് 2 v1 v2 20 അതിനാൽ ഇത് പരിശോധിച്ചാൽ r KCL 1 ആത്യന്തികമായി ഇത് r 2 v1 v2 20 ആണ് ഈ കാര്യങ്ങളെല്ലാം എഴുതിയത് 5 അവിടെ പരാമർശിച്ചതെന്തും അവിടെ വിശദീകരിച്ചതെന്തും ഇവിടെ എഴുതിയിരിക്കുന്നു ഇത് ലളിതമാക്കുകയാണെങ്കിൽ അത് 2 v1 v2 20 ആയിരിക്കും ഇത് സമവാക്യം 1 ആണ് ഇത് r KCL നുള്ളതാണ് സൂപ്പർ നോഡിലേക്ക് കെസിഎൽ പ്രയോഗിക്കുമ്പോൾ ഇത് സമവാക്യം 1 ആണ് ഇപ്പോൾ ഇത് രണ്ടാമത്തേതാണ് ഈ സർക്യൂട്ടിൽ ഇത് മികച്ചതായി വരുന്നത് രണ്ടാമത്തേത് സൂപ്പർ നോഡ് കാരണം KVL പ്രയോഗിക്കേണ്ടതുണ്ട് ഇത് r നോഡ് 1 ആണ് ഇത് r നോഡ് 2 അതിനാൽ ആ റഫറൻസ് നോഡുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേൾക്കുക അതിനാൽ ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ നോഡ് 1 ൽ എന്താണ് വി 1 എന്ന് വിളിക്കേണ്ടത് ഇത് എന്തായാലും r നിലമാണ് ഈ വോൾട്ടേജ് r v2 ആണ് ഇത് r v2 ആണ് അതിനാൽ ഇതിനിടയിൽ ഇത് ഉണ്ട് ഈ വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഇത് r 2 വോൾട്ട് ആണ് ഇത് നോഡ് 1 ഉം ഇത് നോഡ് 2 ഉം ആണ് അതിനാൽ ഇവിടെ ഘടികാരദിശയിൽ പ്രയോഗിച്ചാൽ അത് R KVL ആണ് അപ്പോൾ അത് 2 എന്നിട്ട് ഈ v 2 ആയിരിക്കും പിന്നെ ഇവിടെ ഇതാ പിന്നെ v 2 v 1 0 കാരണം ഇത് എൻകൌണ്ടറിങ് ടെർമിനൽ പാസ് ഇതുപോലെ നീങ്ങുമ്പോൾ അതിനാൽ 2 തുടർന്ന് എൻകൌണ്ടറിങ് ടെർമിനൽ പാസ് v 2 എൻകൌണ്ടറിങ്ൽ ടെർമിനൽ പാസ് അതിനാൽ 0 അതായത് r v2 v1 2 ഈ സൂപ്പർ നോഡ് കാരണം വരുന്ന സ്ഥിരമായ സമവാക്യമാണിത് ഇത് r v1 v2 2 അല്ലെങ്കിൽ v2 v1 2 അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും 1 സമവാക്യം 2 എന്നിവ പരിഹരിക്കുക അപ്പോൾ ആ v1 7 33 വോൾട്ടും v2 5 33 വോൾട്ടും ലഭിക്കും 8 Ω റെസിസ്റ്റർ കാണുക അതിനർത്ഥം സൂപ്പർ നോഡിലുടനീളം കണക്റ്റുചെയ്തിരിക്കുന്നതിനാൽ 8 Ω റെസിസ്റ്ററിന് ഒരു വ്യത്യാസവുമില്ല നമുക്ക് സർക്യൂട്ടിലേക്ക് മടങ്ങാം ഈ സർക്യൂട്ടിലേക്ക് വന്നാൽ 1 8 Ω റെസിസ്റ്റർ ആ സൂപ്പർ നോഡിലുടനീളം ബന്ധിപ്പിച്ചിരിക്കുന്നു കാരണം ഇത് യഥാർത്ഥത്തിൽ r സൂപ്പർ നോഡാണ് അതിനാൽ 8 Ω റെസിസ്റ്ററുകൾ v1 v2 വോൾട്ടേജിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല അതായത് സൂപ്പർ നോഡിലെ ഈ r നെ ഇത് ബാധിക്കില്ല അതിനാൽ ഇത് ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്തായാലും r സൂപ്പർ നോഡിന്റെ ഒരു ഉദാഹരണം ഇതാണ് അടുത്തത് r ഉദാഹരണം r 3 അതിനാൽ നോഡ് വോൾട്ടേജ് രീതി ഉപയോഗിച്ച് ചിത്രം 3 ൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിന്റെ i1 i2 i3 എന്നിവ നിർണ്ണയിക്കുക അതിനാൽ i1 ഉം i3 ഉം കണ്ടെത്തണം പക്ഷേ ഇവിടെ ഒരു ഘടകവുമില്ലെന്ന് ഞാൻ പറയട്ടെ അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു സാധാരണ നോഡാണ് കാരണം വൈദ്യുത ഘടകങ്ങളൊന്നും ഇവിടെയോ ഇല്ല ഇത് ഒരു സാധാരണ നോഡാണ് അതായത് 10 Ω 40 Ω എല്ലാ 3 ആമ്പിയറുകളും ഈ റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എല്ലാം സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു 10 Ω 40 വൈദ്യുത മൂലകം ഉള്ളപ്പോൾ ഒന്നും ഇല്ല i1 i2 i3 എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആ സാഹചര്യത്തിൽ ഇത് വളരെ ലളിതമായി പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ 50 വോൾട്ട് സോഴ്സ്സ്സുമുണ്ട് ഈ ഭാഗത്ത് 3 ആമ്പിയർ ഉണ്ട് ഈ സർക്യൂട്ട് വീണ്ടും വരച്ചു ഞാൻ പറഞ്ഞ വോൾട്ടേജ് ഇത് യഥാർത്ഥത്തിൽ ഒരൊറ്റ നോഡാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് കാരണം വൈദ്യുത മൂലകങ്ങളൊന്നും ഇവിടെയില്ല അടിസ്ഥാനപരമായി ഇത് നോഡ് 1 വി 1 മാത്രം ഈ വശം 50 വോൾട്ട് ഇത് r i1 ആണ് ഈ കറന്റ് i2 എടുത്തു ഈ കറന്റ് i3 ആണ് ഇത് 3 ആമ്പിയർ ആണ് അത് എങ്ങനെ പരിഹരിക്കും ആദ്യം അത് r കണ്ടെത്തണം എന്നതാണ് i1 ന്റെ എക്സ്പ്രഷൻ എന്താണ് കാരണം നോഡ് 1 ൽ കെസിഎൽ പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യം i1 എന്താണെന്ന് കണ്ടെത്തണം അതിനാൽ നോഡ് 1 ൽ r KCL പ്രയോഗിക്കുകയാണെങ്കിൽ അത് i1 ആണ് നിലവിലെ i1 പ്രവേശിക്കുന്നു തുടർന്ന് 3 ആമ്പിയർ കാരണം ഇത് ഒരൊറ്റ നോഡാണ് ഈ 3 ആമ്പിയർ കറന്റും പ്രവേശിക്കുന്നു കാരണം ഇത് ഒരൊറ്റ നോഡാണ് ഇത് ഞാൻ എഴുതുന്നില്ല ഇതിനർത്ഥം ഇതുപോലെയാക്കിയാൽ ഇത് ഇതുപോലെയാകും അതിനാൽ ഇതാണ് നോഡ് ഇത് 10 Ω ലെ r വോൾട്ടേജ് സോഴ്സാണ് തുടർന്ന് ഇവിടെ കൂടി 40 Ω കൂടി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയും നിലവിലെ ഒരു സോഴ്സ്സും ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള സോഴ്സ്സും 3 ആമ്പിയർ ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നോഡ് 1 ആണ് ഈ കറന്റ് r i2 ആണ് ഈ കറന്റ് r i3 ഉം ഈ 3 ആമ്പിയർ കറന്റും ആണ് അതിനാൽ ഇത് സിംഗിൾ നോഡ് എന്നാണ് അർത്ഥമാക്കുന്നത് r KCL ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അത് i1 ആയിരിക്കും ഈ കറന്റ് നോഡ് 1 ൽ പ്രവേശിക്കുന്നു ഇത് 3 ആമ്പിയർ കറന്റാണ് ഇതിനർത്ഥം ഈ 3 ആമ്പിയർ കറന്റ് എല്ലാം ഒരേ പോയിന്റിൽ കണക്റ്റുചെയ്തിട്ടുള്ളതാകുന്നു i1 3 ഇവ രണ്ടും r ആണ് ഈ കറന്റ് നോഡ് 1 i2 എന്നിവയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i3 ഉപേക്ഷിക്കുന്നു i2 i3 ഇപ്പോൾ ചോദ്യം എങ്ങനെ കണ്ടെത്താം എന്നതാണ് അതിനാൽ i1 കണ്ടെത്തുന്നതിന് മുമ്പത്തെ 2 ഉദാഹരണത്തോട് കൂടി ഇത് പ്രത്യേകം എടുക്കുക ഇത് r മനസിലാക്കാൻ ഇത് ആണ് ഇത് 50 വോൾട്ടും 5 Ω റെസിസ്റ്റൻസുമുണ്ട് ഈ 5 Ω റെസിസ്റ്റൻസ് കറന്റ് r i1 ആണ് ഈ വോൾട്ടേജ് v1 എന്നാണ് അതിനാൽ ഈ റഫറൻസുമായി ബന്ധപ്പെട്ട് ഈ r റഫറൻസ് അതിനർത്ഥം v1 യഥാർത്ഥത്തിൽ 10 i2 പക്ഷേ ഇത് എഴുതുകയില്ല ഇത് r ആണെന്ന് ഓർക്കുക ഇത് ആക്കുക റഫറൻസിനും നോൺ റഫറൻസിനും എല്ലായ്പ്പോഴും എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇത് r v1 വോൾട്ടേജാണ് ഇത് r ഗ്രൌണ്ട് സർക്യൂട്ട് ആണ് അതിനാൽ v1 10 i2 പക്ഷേ നേരിട്ട് ഈ v1 എടുക്കുക അതിനാൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ KVL എന്താണ് പ്രയോഗിക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അത് 5 i1 ഈ 5 i1 r v1 ആയിരിക്കും തുടർന്ന് ആദ്യം എൻകൌണ്ടറിങ് ടെർമിനൽ അതിനാൽ 50 0 r i1 50 v1 ആയിരിക്കും 5 കൊണ്ട് ഹരിച്ചാൽ ഇത് r i1 ആയിരിക്കും അതിനാൽ ഈ i1 50 പിന്നീട് നൽകിയ ഇവിടെ പകരം വയ്ക്കണം പക്ഷേ ഓരോന്നും എഴുതാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാനാണ് അതിനാൽ i1 50 v1 5 ആയിരിക്കും നോക്കൂ വളരെയധികം പാരാമീറ്ററുകൾ ഉണ്ട് അതിനാൽ നിരവധി മൂല്യങ്ങൾ രജിസ്റ്റർ ചെയ്യാം തുടർന്ന് നിലവിലുള്ള സോഴ്സ് വോൾട്ടേജ് ഉറവിടം ഇതുപോലെ എഴുതുമ്പോൾ എല്ലാ സാധ്യതകളും അവഗണിക്കാം അല്ലെങ്കിൽ ചില പിശകുകൾ പ്രത്യേക സംഖ്യാ മൂല്യവും ഉണ്ടാക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ പോകുമ്പോൾ ദയവായി എന്നെ അറിയിക്കുക സർ ഒരു പിശക് ഉണ്ട് പക്ഷേ എഴുതുമ്പോൾ ഓരോ പാരാമീറ്ററുകളും പരിശോധിക്കാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോഴും ഒരു സാധ്യതയുണ്ട് അതിനാൽ ഇത് r i1 ആണ് അതിനാൽ ഇവിടെ i1 ഇടുക അതിനർത്ഥം r 50 v1 5 3 i2 അതിനാൽ i2 r v1 b 10 കാരണം ഇത് v1 വോൾട്ടേജും ഇത് 10 Ω റെസിസ്റ്റൻസ് ആണ് i2 യഥാർത്ഥത്തിൽ v1 10 കാരണം റഫറൻസ് വോൾട്ടേജ് 0 അടിസ്ഥാനപരമായി v1 010 ആണ് അത് v1 10 ആണ് അതുപോലെ തന്നെ i3 i3 ഉം ഇത് ഒരേ നോഡ് 1 ആണ് ഇത് നോഡ് 1 i3 ഉം v1 0 v1 ഉം 40 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് r KCL സമവാക്യമാണ് എന്നിട്ട് അതിനെ v1 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക ഇവയെല്ലാം സമവാക്യങ്ങളാണെങ്കിൽ ഇത് v1 വോൾട്ടേജിനായി എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും r v1 അതിനാൽ ഇപ്പോൾ എഴുതിയതെല്ലാം അതിലേക്ക് പോകും അതേ സമവാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എഴുതിയതെന്തും ഈ ഫോമിൽ ഇടുന്നുവെന്ന് പറഞ്ഞതൊക്കെ എഴുതിയതെല്ലാം അതേ രൂപത്തിൽ ലഭിക്കും എല്ലാം r വിശദീകരണത്തിനായി മാത്രം എന്നാൽ ഇത് എഴുതാൻ കഴിയും കാരണം അവിടെ 50 v1 എഴുതുന്നു ഇതെല്ലാം ഇടത് വശത്തേക്ക് കൊണ്ടുവന്നാൽ സമവാക്യം ഇങ്ങനെയായിരിക്കും കാരണം r ഈ v1 10 v1 4 ഒന്നാം സമവാക്യത്തിൽ എഴുതി ചേർക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് എഴുതിയത് 50 v1 5 3 40 ന് 10 v1 ന് v1 എഴുതി എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവന്നാൽ കൈ വശത്ത് ഇത് ഇതുപോലെയാകും ഇത് പരിഹരിക്കുമ്പോൾ v1 40 വോൾട്ട് ലഭിക്കും അതിനാൽ i1 i2 i3 എളുപ്പത്തിൽ i1 50 r എന്ത് v1 5 എന്ന് കണക്കാക്കാൻ കഴിയും അതിനാൽ ഈ 2 ആമ്പിയർ i2 വീണ്ടും v1 10 അതിനാൽ 4010 4 ആമ്പിയർ അതിനാൽ i3 4010 1 ആമ്പിയർ അതിനാൽ ഇത് r ആണ് ഇത് r ഉത്തരമാണ് പതുക്കെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം എടുക്കും ചിത്രം 3 10 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലെ നോഡ് വോൾട്ടേജുകളും 5 Ωs റെസിസ്റ്ററിൽ പവർ ചെയ്യുന്ന വൈദ്യുതിയും ഇവിടെ നിർണ്ണയിക്കുന്നു അതിനാൽ ഇതാണ് സർക്യൂട്ട് നമ്മൾ വിളിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളും നിലവിലുള്ളതാണ് ദിശകൾ അടയാളപ്പെടുത്തി ഇത് r i1 ഇതാണ് i1 ഇതിനെ r ഇതിനെ r i2 എന്ന് വിളിക്കുന്നു ഇത് i2 ആണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ഡിപി അല്ലെങ്കിൽ ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാണ് ഇതിന് നൽകിയിരിക്കുന്നത് 8 ix ആണ് ഇത് യഥാർത്ഥത്തിൽ ix ആണ് ഇത് ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാണ് അതിനാൽ ഇത് 8 ix ഉം ഈ കറന്റ് i3 ഉം ഈ കറന്റ് i4 ഉം ആണ് അതിനാൽ ഇവിടെ i1 എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ഇവിടെയും ഇതുതന്നെയാണ് ഇത് r ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v1 ഈ വോൾട്ടേജ് v1 ആണ് ഇവിടെ കണക്ഷൻ ഇത് ഒരു റഫറൻസ് നോഡാണ് അതിനാൽ ഈ സാഹചര്യത്തിലും നോഡ് 1 ൽ KCL ല്ലുകൾ പ്രയോഗിക്കേണ്ടതുണ്ട് v 1 ന്റെ അടിസ്ഥാനത്തിൽ i1 നേടുകയും ഈ 20 വോൾട്ട് അതിനാൽ എങ്ങനെയാണെങ്കിലും r v1 യഥാർത്ഥത്തിൽ 20 i3 ലേക്ക് r Ωs നിയമമാണ് പക്ഷേ ഇവിടെ r വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ വേണം അതിനാൽ മുമ്പ് 2 3 കേസുകൾ പറഞ്ഞതെന്തും ഈ ലൂപ്പിൽ അറിയാമെങ്കിൽ പ്രയോഗിക്കുകയാണെങ്കിൽ KVL ഇവിടെ പ്രയോഗിക്കുക ഈ സാഹചര്യത്തിൽ 2 i1 എന്ത് ലഭിക്കും കാരണം 2 i1 ഇത് ഇത് അഭിമുഖീകരിക്കുന്നു ടെർമിനൽ ആദ്യം ഇവിടെ അടയാളപ്പെടുത്തിയാൽ അത് ആണ് അതിനാൽ 2 i1 മനസ്സിലാക്കാവുന്ന 2 i1 v1 തുടർന്ന് 20 എന്നത് 0 ന് തുല്യമാണ് കാരണം അത് ആദ്യം നേരിടുന്നു ടെർമിനൽ അതിനാൽ ഇത് 0 അതായത് r i1 20 r v1 2 ഇതാണ് i1 നായുള്ള സമവാക്യം അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയില്ല അതിനാൽ എന്തായാലും ഇതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നോഡ് 1 നോഡ് 2 എന്നിവയിൽ r പ്രയോഗിക്കണം r KCL പ്രയോഗിക്കണം അതിനുശേഷം അത് ഉണ്ടാക്കുക എന്നതാണ് കാര്യം അതിനാൽ സമാനമായി മറ്റൊരു കാര്യം ഇത് 8 വോൾട്ട് ആണ് അതിനാൽ ഇത് ഈ വോൾട്ടേജ് v2 ആണ് ഇതാണ് ഗ്രൌണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതുപോലെ നീക്കുക എന്ന് പറഞ്ഞാൽ ഘടികാരദിശയിൽ പറഞ്ഞാൽ ഇതുപോലെയോ അല്ലെങ്കിൽ എതിർ ഘടികാരദിശയിലോ നീക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന വഴി ഇതുപോലെ നീങ്ങുകയാണെങ്കിൽ ലാളിത്യത്തിനായി r നെ മുറുകെ പിടിക്കുക ഇച്ഛാശക്തിയിലുള്ള കാര്യങ്ങൾ ഈ r ന്റെ ദിശയിലേക്ക് ലൂപ്പ് എടുക്കും അതിനാൽ ഇതുപോലെ എടുക്കുക അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും കൂടാതെ ഈ വോൾട്ടേജ് v2 ആണ് ഇതാണ് ഇത് ആണ് അതിനാൽ ഇത് എതിർ ഘടികാരദിശയിൽ എടുക്കുകയാണെങ്കിൽ അർത്ഥം സമാനമാണ് ഫലം അതേപടി തുടരും അതിനാൽ 2 i2 ആയിരിക്കും 2 i2 അല്ലെങ്കിൽ ഘടികാരദിശയിൽ ചിഹ്നം മാറ്റണമെങ്കിൽ എല്ലാ 2 i2 ഈ v v2 ആദ്യം ടെർമിനലിനെ അഭിമുഖീകരിക്കുന്നു അത് v2 v2 ആണ് തുടർന്ന് r അത് അഭിമുഖീകരിക്കുന്നു ടെർമിനൽ ആദ്യം ഇത് ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാണ് അടിസ്ഥാനപരമായി ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാണ് അതിനാൽ ഇത് v 0 0 പറയുക 8 ix ഇതുപോലുള്ള ഒന്ന് ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സാണ് നിലവിലെതല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് അത് പിന്നീട് ആയിരിക്കും r 8 ix 0 കാരണം ആദ്യം കണ്ടുമുട്ടുന്നത് ടെർമിനൽ അതിനാൽ 2 i2 r ഈ v2 കാരണം ഇത് നോഡ് 2 v2 8 ix 0 അതായത് r i2 8 ix v2 2 ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തുചെയ്യാൻ കഴിയും എന്നത് അടുത്തതായി i1 എന്താണെന്നും i2 എങ്ങനെ കണ്ടെത്താമെന്നും r i3 കണ്ടെത്തേണ്ടതുണ്ട് ഇത് യഥാർത്ഥത്തിൽ റഫറൻസ് ലോഡ് വോൾട്ടേജിന് നേരിട്ട് i3 v1 20 എന്ന് എഴുതാൻ കഴിയും ഇത് r i3 ആണ് അതുപോലെ i4 r v2 10 v2 10 അതായത് i4 അതിനാൽ ഈ കാര്യങ്ങളെല്ലാം i1 i1 i2 i3 i4 v1 v2 എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നു അടുത്തത് ix ആണ് ഈ ix ix നോഡ് 1 ൽ നിന്ന് 2 ലേക്ക് നീങ്ങുന്ന തുല്യ r കറന്റാണ് അതിനാൽ ix v1 v2 5 കാരണം ഈ 5 Ω പ്രതിരോധം ഇവിടെയുണ്ട് അതിനാൽ v1 ഈ ix ഇവിടെ പകരമാവുകയും അത് ലളിതമാക്കുകയും വേണം അതിനാൽ സമവാക്യത്തിന്റെ ഘട്ടങ്ങളും അത് എങ്ങനെ പരിഹരിക്കാമെന്ന് കാണിക്കുന്ന ബാക്കിയുള്ളവ നിങ്ങൾക്ക് കാണാനാകും അതിനാൽ നോഡ് 1 i1 i3 ix നോഡ് 1 നോക്കുകയാണെങ്കിൽ ഇത് നോഡ് 1 ലാണ് അതിനാൽ നോഡ് 1 ൽ ഇവിടെ KCL പ്രയോഗിച്ചാൽ അത് r i1 r ആണ് ഇത് യഥാർത്ഥത്തിൽ നോഡ് 1 ആണെന്നും KCL ഇവിടെ പ്രയോഗിച്ചാൽ നോഡ് 1 ആണെന്നും ഓർക്കണം അതിനാൽ ഇത് i1 r i3 ix ആണ് ഇത് നോഡ് 1 ലാണ് അതുപോലെ തന്നെ നോഡ് 2 ൽ KCL പ്രയോഗിക്കുകയാണെങ്കിൽ r കാരണം ഈ കറന്റ് ഇൻകമിംഗ് ആയതിനാൽ ഇവ 2 ഔട്ഗോഇങ്ങും നോഡ് 2 r i2 ലും i2 ix എന്നിവ നോഡ് 2 ലേക്ക് പ്രവേശിക്കുകയും ഈ i4 വിടുകയും ചെയ്യുന്നു അതിനാൽ ix i2 i4 ആണ് ഈ 2 സമവാക്യങ്ങളും അതിനുശേഷം എഴുതേണ്ടത് v1 v2 എന്നിവയുടെ അടിസ്ഥാനത്തിൽ നോഡ് 1 ൽ ഇത് i1 i3 ix ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വയ്ക്കുക അതുപോലെ നോഡ് 2 i4 ix i2 ൽ r അതിനാൽ ഇതെല്ലാം വിശദീകരിച്ച് നീല മഷി ഉപയോഗിച്ച് പറഞ്ഞു അത് അവിടെ വയ്ക്കുക ix ഉം v1 നോട് പറഞ്ഞു v2 5 ഇത് ഇവിടെ ഇടണം ix അതിനാൽ 2 3 എന്നീ സമവാക്യങ്ങളിൽ നിന്ന് ലളിതവൽക്കരിക്കപ്പെടുമ്പോൾ ഇവയെല്ലാം v1 1 6 v2 ലഭിക്കും ഇതാണ് സമവാക്യം 4 ഇപ്പോൾ 1 4 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുക ഇത് v1 v2 എന്നിവയുടെ അടിസ്ഥാനത്തിൽ r സമവാക്യമാണ് 1 4 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുക r v1 16 വോൾട്ടും v2 10 വോൾട്ടും ix v1 v2 5 ഉം ലഭിക്കും ആ സർക്യൂട്ടിൽ നിന്ന് അത് 1 2 ആമ്പിയറും പവർ r ഉം ഒരു പോയിന്റാണ് ചതുരശ്ര 1 2 വാട്ട് ഇതാണ് പവർ സ്ക്വയർ r 7 2 വാട്ട് അതിനാൽ ഇതാണ് ഉത്തരം അടുത്തത് ചിത്രം 3 ൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിന്റെ നോഡ് വോൾട്ടേജുകൾ നിർണ്ണയിക്കുന്നു 11 3 11 അതിനാൽ സർക്യൂട്ടിന്റെ നോഡ് വോൾട്ടേജുകൾ കണ്ടെത്തണം നോക്കൂ ഈ സാഹചര്യത്തിൽ 1 ആമ്പിയറിനായി ഒരു നിലവിലെ ഉറവിടം ഇവിടെയുണ്ട് അതിനർത്ഥം ഈ കറന്റ് യഥാർത്ഥത്തിൽ 1 ആമ്പിയർ ആണ് ഈ കറന്റ് നോഡിലേക്ക് 1 ആമ്പിയർ ആണ് അടുത്തത് വോൾട്ടേജ് സ്രോതസ്സ് ഇവിടെ 10 വോൾട്ട് ഉണ്ടെങ്കിൽ ഇത് r നോഡ് 3 ഉം ഇത് r റഫറൻസ് നോഡും ആണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് v 0 0 ആണ് അതെ വീണ്ടും പറഞ്ഞു അതിനാൽ അടിസ്ഥാനപരമായി നേരിട്ട് യഥാർത്ഥത്തിൽ v 3 10 വോൾട്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 10 വോൾട്ട് ആണ് v 3 നൽകിയിട്ടുണ്ട് ഇതിനർത്ഥം v 3 ന് നേരിട്ട് 10 വോൾട്ട് എഴുതാൻ കഴിയും മറ്റൊന്ന് v2 ഉം ഇവയാണ് വൈദ്യുതധാരകളും അതിനാൽ ഇവയാണ് നിലവിലുള്ള i2 i1 r i3 i4 അതിനാൽ r പ്രയോഗിക്കണം നോഡ് 1 ൽ KCL ല്ലുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ 1 ആമ്പിയർ കറന്റ് വർദ്ധിക്കുന്നു അതിനാൽ 1 i1 നൽകുകയും i2 നോഡിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് i1 i2 ആയിരിക്കും അതിനാൽ i1 i2 1 ഇത് ഒരു സമവാക്യം വരും അതുപോലെ KCL ല്ലിന്റെ ഈ നോഡിനെ ഇവിടെ പ്രയോഗിച്ചാൽ i1 കറന്റ് ഈ i1 കറന്റ് ഇതുപോലെ പ്രവഹിക്കുന്നു അതിനാൽ ഇത് r i1 i1 കറന്റ് ഇതിലേക്ക് നോഡ് 2 ലേക്ക് പ്രവേശിക്കുകയും i3 i4 എന്നിവ വിടുകയും ചെയ്യുന്നു അതിനാൽ i1 തുല്യമാണ് 2 i3 i4 ഇത് r ആണ് അടുത്തത് r i2 എന്താണെന്ന് കണ്ടെത്തണം ആദ്യം r പരിശോധിച്ചാൽ i2 i1 ഈ v1 v2 ന് 5 അതിനാൽ ഇത് 5 ന് v1 v2 ആണ് ഇത് i1 ഉം അടുത്തത് r2 ഉം i2 എന്ന് വിളിക്കുന്നു i2 2 അതിനാൽ ഇത് v1 v 3 ന് 2 v1 v 3 ന് 2 ആണ് അത് യഥാർത്ഥത്തിൽ v1 v 3 10 വോൾട്ട് v 3 10 വോൾട്ട് 3 ന് 2 ആണ് അതിനാൽ i2 v1 10 ന് 2 പിന്നെ i3 അത് 2 മുതൽ 3 വരെ പ്രവഹിക്കുന്നു അതിനാൽ i3 v2 v 310 അതിനാൽ v 3 യഥാർത്ഥത്തിൽ 10 വോൾട്ട് അതിനാൽ അടിസ്ഥാനപരമായി ഇത് v2 1010 അതിനാൽ ഇത് r i3 ആയിരിക്കും ഇതെല്ലാം സമവാക്യങ്ങളാണെങ്കിൽ ഇപ്പോൾ പരിഹാരത്തിലേക്ക് പോകുക ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നോഡ് 1 ൽ v 3 10 വോൾട്ട് i1 i2 1 പകരമുള്ള i1 i2 ഈ i2 ഉം v1 10 2 അതിനാൽ ഇവിടെ പോയിന്റ് ഏഴ് v1 പോയിന്റ് 2 v2 6 അനുസരിച്ച് ഒരു സമവാക്യം ലഭിക്കും ഇത് നോഡ് 2 ലെ സമവാക്യം 1 ആണ് i1 i3 i4 എന്നും പറഞ്ഞു അതിനാൽ i1 എന്നത് v1 v2 5 v2 1010 i4 v2 5 ആണ് ഇത് r i4 ആണ് ഇത് r v2 ആണ് ഇത് റഫറൻസ് നോഡാണ് അതിനാൽ i4 v2 5 എങ്കിൽ അതിനർത്ഥം പോയിന്റ് 2 v1 0 5 v2 1 1 2 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് v1 10 32 വോൾട്ടും v2 6 13 വോൾട്ടും ലഭിക്കും ഇപ്പോൾ അടുത്തത് സർക്യൂട്ടിന്റെ നോഡ് വോൾട്ടേജ് ചിത്രം r ൽ കാണിച്ചിരിക്കുന്നതുപോലെ നിർണ്ണയിക്കുന്നു ചിത്രം 12 ൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 ഈ സർക്യൂട്ടിൽ ഇവിടെ 10 ആമ്പിയറിന്റെ നിലവിലെ ഉറവിടങ്ങളുണ്ട് ഇത് v1 ആണ് ഇത് v2 ഉം ഇത് v 3 ഉം ആണ് അതിനാൽ ഈ സാഹചര്യത്തിലും നോഡ് 1 ൽ r പ്രയോഗിക്കുക r KCL പ്രയോഗിക്കുക അതുപോലെ തന്നെ i1 v1 v 320 i2 v1 v2 5 അതുപോലെ i3 ഈ ദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന v 3 v2 10 ആയിരിക്കും അതുപോലെ r i5 v 35 ആയിരിക്കും കാരണം ഇത് റഫറൻസ് നോഡ് വോൾട്ടേജ് 0 i5 v 35 ആയിരിക്കും അതുപോലെ i4 10 ന് v1 ആയിരിക്കും എളുപ്പത്തിൽ കണ്ടെത്താനും ഈ 10 ആമ്പിയർ നിലവിലെ ഉറവിടം പ്രവേശിക്കാനും കഴിയും അതിനാൽ ഈ സമയത്ത് KCL പ്രയോഗിച്ചാൽ അത് r കറന്റും നോഡിൽ നിന്ന് പുറത്തുപോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി KCL പ്രയോഗിച്ചാൽ i1 i2 i4 0 ഇത് നോഡ് 1 ലാണ് കൂടാതെ എല്ലാ i1 i2 i3 v1 v2 v 3 എന്നിവയുടെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ അറിയാനും കഴിയും അതുപോലെ നോഡ് 2 ൽ KCL പ്രയോഗിക്കുകയാണെങ്കിൽ അതിനാൽ ഈ 3 വൈദ്യുതധാരകളായ i2 i3 10 എന്നിവയെല്ലാം നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനർത്ഥം ഇവിടെയും i2 അത് 0 ആയിരുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് 0 ആയിരിക്കും അതിനാൽ അവയിൽ ചിലത് 0 ആണ് അതിനാൽ i2 പ്രവേശിക്കുന്നത് i3 പ്രവേശിക്കുന്നു 10 ഉം പ്രവേശിക്കുന്നു അതിനാൽ i2 i3 10 0 ഇത് മറ്റൊരു KCL ആണ് നോഡ് 3 ൽ r KCL പ്രയോഗിക്കണമെങ്കിൽ ഈ i1 കറന്റ് യഥാർത്ഥത്തിൽ ഈ നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i1 മറ്റ് 2 വൈദ്യുത പ്രവാഹങ്ങൾ പോകുന്നു അതിനാൽ i3 i5 ഇവയെല്ലാം ഇത് അറിയുന്നതായിരിക്കും ഇത് ഇപ്പോൾ വിശദീകരണത്തിനുള്ളതാണ് അതിനാൽ ഇതെല്ലാം ഇത് നേരിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ i1 i2 i4 0 എന്ന് പറയാൻ കഴിയും ഇപ്പോൾ i1 i2 i3 എന്നിവ അറിയുക ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു സമവാക്യമാണ് അതുപോലെ നോഡ് 2 ൽ i2 i3 10 0 നോഡ് 3 ലും i1 i3 i5 ലളിതമാക്കിയതിനുശേഷം ഇത് മറ്റൊരു സമവാക്യമാണ് ഇവയിലെല്ലാം i1 i3 എന്നിവ അറിയുക മറ്റൊരു സമവാക്യങ്ങൾ നേടുക തുടർന്ന് 1 2 3 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുക ക്രാമറിന്റെ ഭരണം അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള മറ്റേതെങ്കിലും മാർഗ്ഗം v1 45 45 വോൾട്ട് ലഭിക്കും 73 വോൾട്ടും വി 3 27 27 വോൾട്ടും ഇത് നിങ്ങൾ മനസിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിംഗിൾ ഫേസ് 3 ഫേസ് സർക്യൂട്ടുകൾ എന്നിവയ്ക്കായി ഇത് ബാധകമാകും അതിനാൽ നിങ്ങളുടെ ധാരണ വ്യക്തമാക്കിയാൽ മാത്രം r AC സർക്യൂട്ട് വിശകലനത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും